മോഡ് I നുള്ള വെസ്റ്റർഗാർഡ് സ്ട്രസ് ഫംഗ്ഷൻ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ച തുടരാം ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തത്തിൽ നമ്മൾ അത് വിശദമായി കണ്ടു സ്ട്രെസ് ഫംഗ്ഷൻ വ്യക്തമാക്കിയാൽ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും മോഡ് I ലോഡിംഗിന് കീഴിലുള്ള ഒരു വിള്ളലിന്റെ പ്രശ്നമുണ്ടായാൽ എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ അനുസരിച്ച് Z ഡബിൾ ബാറിന്റെ റിയൽ ഭാഗം പ്ലസ് y Z ബാറിന്റെ സാങ്കൽപ്പിക ഭാഗവുമാണ് Z ഒരു വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷനാണ് ഒരു മോഡ് I പ്രശ്നത്തിന്റെ കാര്യത്തിൽ അതിന്റെ രൂപം എന്താണെന്ന് നമ്മൾ ഇതുവരെ കാണുന്നില്ല എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് നമ്മൾ എടുത്ത ഫംഗ്ഷൻ എന്തുതന്നെയായാലും ഇത് ബൈ ഹാർമോണിക് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു ഡെൽ പവർ 4 ഫൈ 0 ന് തുല്യമാണ് പ്രക്രിയയിൽ നമ്മൾ എല്ലാ ഡിഫറൻഷ്യലുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് dou ഫൈ ബൈ dou x dou സ്ക്വയേർഡ് ഫൈ ബൈ dou x സ്ക്വയേർഡ് dou ക്യൂബ് ഫൈ ബൈ dou x ക്യൂബ് dou പവർ 4 ഫൈ ബൈ dou x പവർ 4 വാസ്തവത്തിൽ അവസാന ക്ലാസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ക്ലറിക്കൽ പിശക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവ കാണാനും ഉചിതമായ രീതിയിൽ എഡിറ്റുചെയ്യാനും കഴിയും നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ dou സ്ക്വയർ ഫൈ ബൈ dou x സ്ക്വയർ എന്നത് Z റിയൽ ഭാഗം പ്ലസ് y ഗുണം Z പ്രൈം ഇൻറെ സാങ്കൽപ്പിക ഭാഗമായി നൽകിയിരിക്കുന്നു ഇത് നേരിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഘടകമായ സിഗ്മ yയും dou സ്ക്വയർ ഫൈ ബൈ dou y സ്ക്വയർ സ്ട്രെസ് ഘടകം സിഗ്മ x നൽകും നമ്മൾ നോക്കിയത് നിങ്ങൾ ഇവയെ ബൈ ഹാർമോണിക് ഉപയോഗിച്ച് ഉചിതമായി മാറ്റിസ്ഥാപിക്കുമ്പോൾ ബൈ ഹാർമോണിക് സമവാക്യം തൃപ്തികരമാണ് അതിനാൽ പരിഹാരത്തിനായി സാധ്യമാകുന്ന ഒരു സ്ട്രെസ് ഫംഗ്ഷനിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തി ഈ ഘട്ടത്തിൽ നമുക്ക് ഈ രീതിയിൽ നോക്കാം അതിർത്തി അവസ്ഥയും നമ്മൾ പരിശോധിക്കും അതിനുശേഷം നമ്മൾ നേടിയ സ്ട്രെസ് ഫീൽഡിൽ നിന്ന് ലഭിച്ച പരിഹാരത്തെ പരീക്ഷണങ്ങളുമായി താരതമ്യം ചെയ്യും ഏത് തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തണമെന്ന് നമ്മൾ അന്വേഷിക്കും ആ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചെത്തി വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഉന്നയിക്കും നമ്മൾ തിരഞ്ഞെടുത്ത സ്ട്രെസ് ഫംഗ്ഷൻ തീർച്ചയായും സമഗ്രമാണോ അല്ലയോ എന്ന് അതിനാൽ ആ ചോദ്യം തൽക്കാലം നമ്മൾ മാറ്റിവയ്ക്കുന്നു തുടർന്ന് നമ്മൾ പ്രശ്നം നിർവചിക്കുന്നതിലേക്ക് നീങ്ങുന്നു അതിർത്തി വ്യവസ്ഥകൾ നാം നോക്കണം വിഷ്വലൈസേഷൻ ആവശ്യത്തിനായി ഞാൻ സൂചിപ്പിച്ചിരുന്നു വിള്ളൽ മുഖങ്ങൾ ഒരു എലിപ്സ് രൂപത്തിൽ തുറക്കുന്നത് നിങ്ങൾ കാണുന്നു എലിപ്സും ക്രാക്ക് പ്രശ്നവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും ഞാൻ പറഞ്ഞു നമ്മൾ ഡിസ്പ്ലേ സ്മെൻറ് ഫീൽഡ് സമവാക്യങ്ങൾ വികസിപ്പിച്ചുകഴിഞ്ഞാൽ വിള്ളൽ മുഖങ്ങൾ എങ്ങനെ തുറക്കുന്നുവെന്ന് ഗണിതശാസ്ത്രപരമായി നമ്മൾ കണ്ടെത്തും നമുക്ക് എത്തരത്തിലുള്ള കർവ് ആണ് ലഭിക്കുന്നത് നമ്മൾ കണ്ടെത്തും ഈ അതിർത്തി വ്യവസ്ഥകൾ വളരെ ലളിതവും നേരെയുമാണ് അതിനാൽ വിള്ളൽ മുഖങ്ങളിൽ നിങ്ങൾക്ക് സിഗ്മ y 0 ന് തുല്യവും tau xy 0 ന് തുല്യവും ആയിരിക്കണം അനന്തതയിൽ നമ്മൾ ഒരു ബയാക്സിയൽ സ്ട്രെസ് ഫീൽഡ് പ്രയോഗിക്കുന്നുവെന്ന് നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു അതിനാൽ ഇത് തൃപ്തിപ്പെടുത്തണം 1939 ൽ വെസ്റ്റർഗാർഡ് തന്റെ പരിഹാരം റിപ്പോർട്ടു ചെയ്തപ്പോൾ അദ്ദേഹം കുറെയേറെ പ്രശ്നങ്ങൾ പരിഗണിച്ചിരുന്നു അതിൽ x ന്റെ ഏത് മൂല്യത്തിനും y പൂജ്യത്തിന് തുല്യമായ മൂല്യം നൽകി ഇൻ പ്ലെയിൻ ഷിയറിന്റെ സ്ട്രെസ് 0 ന് തുല്യമായിരിക്കണം വാസ്തവത്തിൽ അദ്ദേഹം ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഒരൊറ്റ പേപ്പറിൽ ഏകദേശം 8 അല്ലെങ്കിൽ 9 പരിഹരിച്ചു പരമ്പരാഗത പ്രശ്നങ്ങളും വിള്ളലുകൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങളും ഒറ്റ വിള്ളൽ ഉൾപ്പെടുന്ന പ്രശ്നങ്ങളും ഒന്നിലധികം വിള്ളൽ ഉള്ള പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ചു അനന്തമായ സ്ട്രിപ്പിലെ സെൻട്രൽ ക്രാക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച സ്ട്രെസ് ഫംഗ്ഷൻ എന്താണ് സ്ട്രെസ് ഫംഗ്ഷൻ Z എന്നത് സിഗ്മ z ബൈ സ്ക്വയർ റൂട്ട് Z സ്ക്വയർ മൈനസ് a സ്ക്വയറാണ് നിങ്ങൾക്കറിയാമോ ഈ സ്ട്രെസ് ഫംഗ്ഷൻ വളരെ ലളിതമായി തോന്നുന്നു മോഡ് II മോഡ് III എന്നിവയ്ക്കായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോം ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നു അതാണ് വെസ്റ്റർഗാർഡിന്റെ സമീപനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഇത് മാത്രമല്ല ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഒരൊറ്റ വിള്ളലിന് വേണ്ടിയുള്ളതാണ് ഇതിന്റെ ലളിതമായ പരിഷ്ക്കരണത്തിലൂടെ തുല്യ അകലത്തിലുള്ള വിള്ളലുകൾ നിരവധി വിള്ളലുകൾ എന്നിവയുടെ സ്ട്രെസ് ഫംഗ്ഷൻ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പരിമിത ബോഡി അല്ലെങ്കിൽ സിംഗിൾ എഡ്ജ് ക്രാക്ക് അല്ലെങ്കിൽ ഡബിൾ എഡ്ജ് ക്രാക്ക് ഉള്ള ഒരു ബോഡിക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവയെല്ലാം ഒരു കൂട്ടം പരിഹാരങ്ങൾ എത്തിച്ചേരാനുള്ള ആരംഭ പോയിന്റായിരിക്കും അതിനാൽ വെസ്റ്റർഗാർഡിന്റെ സമീപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് Z എന്ന സ്ട്രെസ് ഫംഗ്ഷൻ അദ്ദേഹം സൃഷ്ടിച്ചു ലളിതമായ പരിഷ്ക്കരണങ്ങളിലൂടെ നിങ്ങൾക്ക് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും തുടർന്നുള്ള ചർച്ചയിലും നമ്മൾ ഇത് Z ആയി സൂക്ഷിക്കുകയും സിഗ്മ x സിഗ്മ y tau xyഎന്നിവയ്ക്കുള്ള എക്സ്പ്രഷൻ നേടുകയും ചെയ്യും പിന്നീട് നമ്മൾ നിർദ്ദിഷ്ട സ്ട്രെസ് ഫംഗ്ഷൻ മാറ്റിസ്ഥാപിക്കും ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് y എന്നതിന് തുല്യമായി 0 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷിയർ സ്ട്രെസ് 0 ന് തുല്യമായിരിക്കണം എളുപ്പത്തിൽ തൃപ്തിപ്പെടും ഷിയർ സ്ട്രെസ് ന്റെ അടിസ്ഥാന പദപ്രയോഗം പരിശോധിക്കുകയാണെങ്കിൽ ഇത് Z പ്രൈമിന്റെ റിയൽ ഭാഗത്തിന്റെ മൈനസ് y മടങ്ങ് ആണ് അതിനാൽ y 0 ന് തുല്യമാകുമ്പോൾ ഷിയർ സ്ട്രെസ് ഘടകം സ്വാഭാവികമായി തൃപ്തിപ്പെടും വിള്ളൽ മുഖങ്ങളിൽ സിഗ്മ y 0 ആണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അനന്തതയിൽ സിഗ്മ y സിഗ്മ x എന്നിവയ്ക്ക് എന്ത് സംഭവിക്കും കൂടാതെ സിഗ്മ y സിഗ്മ x എന്നിവയ്ക്കുള്ള പദപ്രയോഗത്തിന് രണ്ടാമത്തെ ടേമിന്റെ ഒരു അടയാള വ്യത്യാസം മാത്രമേയുള്ളൂ അല്ലാത്തപക്ഷം ക്യാപിറ്റൽ Z എന്താണെന്നും ക്യാപിറ്റൽ Z പ്രൈം എന്താണെന്നും നിങ്ങൾ വിഷമിക്കേണ്ടിവരും വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷനിൽ അതിർത്തി വ്യവസ്ഥകൾ തൃപ്തികരമാണോയെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇതിനകം പരിഹാരം ലഭിച്ചു പരിഹാരം ശരിയാണോ എന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കുകയാണ് അതിർത്തി വ്യവസ്ഥ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ നമ്മൾ ഒരു കോയിഫിഷ്ൻറെ വിലയിരുത്തുന്നില്ല ഒരു ബീം പ്രശ്നത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിരവധി കോയിഫിഷ്ൻറെ കണ്ടു അതിർത്തി വ്യവസ്ഥകൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കോയിഫിഷ്ൻറെ വിലയിരുത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞു വെസ്റ്റർഗാർഡ് നേടിയ പരിഹാരം ശരിയാണോ അല്ലയോ എന്ന് വീണ്ടും സ്ഥിരീകരിക്കുക മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ എന്താണ് നോക്കേണ്ടത് വിള്ളൽ മുഖങ്ങളിൽ സിഗ്മ y എന്താണെന്ന് കണ്ടെത്തണം ഇതിന് രണ്ട് പദങ്ങളുണ്ട് ആദ്യ പദം Z ന്റെ റിയൽ ഭാഗവും രണ്ടാമത്തെ പദം y ഗുണം Z പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗവുമാണ് വിള്ളൽ മുഖത്ത് y 0 ന് തുല്യമാണ് അതിനാൽ രണ്ടാമത്തെ പദം 0 ലേക്ക് പോകുന്നു അതിനാൽ ഞാൻ പോയി വിള്ളൽ മുഖത്ത് Z ന്റെ റിയൽ ഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് Z ന്റെ സാങ്കൽപ്പിക ഭാഗം മാത്രമേ ഉണ്ടാകൂ എന്ന് എനിക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ എന്റെ ജോലി പൂർത്തിയായി അത് അങ്ങനെയാണ് നിങ്ങൾ വിള്ളൽ മുഖം എടുക്കുന്നതിനാൽ x മൈനസ് a മുതൽ പ്ലസ് a വരെയാണ് ഈ പദപ്രയോഗം നോക്കുമ്പോൾ റൂട്ട് Z സ്ക്വയർ മൈനസ് a സ്ക്വയർ ഇത് സാങ്കൽപ്പികമാണ് നമ്മൾ ചർച്ചചെയ്യുമ്പോൾ ഞാൻ പരസ്പരം z അല്ലെങ്കിൽ Z ഉപയോഗിക്കുന്നു അതിനാൽ സന്ദർഭത്തെ ആശ്രയിച്ച് നിങ്ങൾ ഒരു വ്യാഖ്യാനം നൽകുന്നു എന്നിരുന്നാലും നിങ്ങൾ എഴുതുമ്പോൾ z ഉം Z ഉം തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഉറപ്പാക്കുക അല്ലാത്തപക്ഷം നിങ്ങൾ ശരിക്കും ആശയക്കുഴപ്പത്തിലാകും അതിനാൽ നമുക്ക് ഇപ്പോൾ കാണിക്കാൻ കഴിയുന്നത് വിള്ളൽ മുഖത്ത് സിഗ്മ y 0 ഉം ഷിയർ സ്ട്രെസ് 0 ഉം ആണ് അതിനാൽ അതിർത്തി അവസ്ഥ 1 പൂർണ്ണമായും തൃപ്തികരമാണ് അതിർത്തി അവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കാം 2 വിദൂര ഫീൽഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു അതായത് z അനന്തതയെ സമീപിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ z a നേക്കാൾ വളരെ വലുതാണ് അതിനാൽ ഈ പദപ്രയോഗം ലളിതം ആക്കിയാൽ എനിക്ക് Z എന്ന് എഴുതാം സ്ട്രെസ് ഫംഗ്ഷന് എന്ത് സംഭവിക്കും സ്ട്രെസ് ഫംഗ്ഷൻ സിഗ്മയായി മാറുന്നു അത് കോൺസ്റ്റൻസ് ആണ് ഇത് Z ന്റെ ഫംഗ്ഷൻ അല്ല

അതിനാൽ ഇത് Z ന്റെ ഫംഗ്ഷനല്ലെങ്കിൽ Z പ്രൈം 0 ആണ് കാരണം നിങ്ങൾ സിഗ്മ x അല്ലെങ്കിൽ സിഗ്മ y യുടെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് Z എന്നും എന്താണ് Z പ്രൈം എന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ അനന്തതയിൽ അവയെല്ലാം നമുക്കറിയാം അതിനാൽ നിങ്ങൾ ഇത് നോക്കുമ്പോൾ സിഗ്മ x നുള്ള പദപ്രയോഗം Z ൻറെ റിയൽ ഭാഗം മൈനസ് y ഗുണം Z പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗമായി നൽകിയിരിക്കുന്നു അത് സിഗ്മ ആയി മാറുന്നു രണ്ടാമത്തെ ടേമിൽ ഒരു ചെറിയ ചിഹ്ന മാറ്റം മാത്രമേയുള്ളൂ സിഗ്മ y യും സിഗ്മയായി മാറുന്നു അതിനാൽ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് നിങ്ങൾ ഇത് ഒരിക്കലും മറക്കരുത് വെസ്റ്റർഗാർഡിന്റെ പരിഹാരം തീർച്ചയായും ഒരു ബയാക്ഷിയൽ ടെൻഷൻ മാതൃകയിലെ ഒരു കേന്ദ്ര വിള്ളലാണ് എന്ന് ഈ ഘട്ടം വ്യക്തമാക്കുന്നു ഇത് ഏകീകൃത പിരിമുറുക്കത്തിന് വിധേയമല്ല നിങ്ങളുടെ അതിർത്തി അവസ്ഥ നിങ്ങൾ ശരിക്കും ഒരു ബയാക്സിയൽ പ്രശ്നത്തിലേക്ക് നോക്കുകയാണെന്ന് വ്യക്തമാക്കുന്നു നിങ്ങൾ പ്രയോഗിച്ച ലോഡാണ് ബയാക്സിയൽ ടെൻഷൻ ഷിയർ സ്ട്രെസ് വ്യക്തമായും 0 ആണ് കാരണം z പ്രൈം അനന്തമായി 0 ആണ് നമ്മൾ ഇതിനകം നോക്കിയത് y 0 ന് തുല്യമാണ് tau xy 0 ആണ് അതിനാൽ മൂന്ന് അതിർത്തി വ്യവസ്ഥകളും തൃപ്തികരമാണ് നോക്കൂ ഇപ്പോഴുള്ളതുപോലെ പരിഹാരം എങ്ങനെ കാണപ്പെടും നിങ്ങൾക്കറിയാമോ എനിക്ക് z ഉണ്ട് വിള്ളൽ മുഖങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ തൃപ്തിപ്പെടുത്തുന്നു അനന്തത്തിൽ സംഭവിക്കുന്നത് ഞാൻ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പരിഹാരം മുഴുവൻ ഫീൽഡിനും സാധുതയുള്ളതാണെന്ന് ഇത് അർത്ഥമാക്കുന്നു ഇത് ഒരു അടച്ച ഫോം പരിഹാരം പോലെയാണ് പിന്നെ എവിടെയാണ് വ്യത്യാസം വരുന്നത് നമ്മൾ ഉടൻ കാണും ഒറിജിൻ ഷിഫ്റ്റിംഗ് എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡിനെക്കുറിച്ചോ പറയുന്നത് ഞാൻ ഉറവിടം മാറ്റുമ്പോൾ അത് വരുന്നു നമ്മൾ നോക്കിയ സ്ട്രെസ് ഫംഗ്ഷൻ എന്തുതന്നെയായാലും x y എന്ന അക്ഷത്തിന് നൽകിയിട്ടുണ്ട് അവിടെ ഉത്ഭവം ക്രാക്ക് ടിപ്പിന്റെ മധ്യഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഉറവിടം വിള്ളലിന്റെ അഗ്രത്തിലേക്ക് മാറ്റുന്നു നിങ്ങളുടെ ദൃശ്യവൽക്കരണത്തെ സഹായിക്കുന്നതിന് നിങ്ങൾ y അക്ഷത്തിൽ ടെൻഷനും x അക്ഷത്തിൽ ടെൻഷനും ഉണ്ടായിരിക്കുക അതിനാൽ ഇത് അനന്തതയിൽ ബൈ ആക്സെൽ ടെന്ഷന് വിധേയമാണ് ആളുകൾ പ്ലേറ്റിന്റെ പ്രശ്നം വൃത്താകൃതിയിലുള്ള ദ്വാരം എലിപ്റ്റിക്കൽ ദ്വാരമുള്ള പ്ലേറ്റ് ഏകീകൃത ടെൻഷൻ ഓടെ പരിഹരിച്ചതിനാൽ ഗ്രിഫിത്ത് ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് വികസിപ്പിച്ചപ്പോൾ ഒരു ടെൻഷൻ സ്ട്രിപ്പിൽ ഒരു കേന്ദ്ര വിള്ളൽ എടുത്തു വെസ്റ്റർഗാർഡ് പരിഹാരം ഒരു കേന്ദ്ര വിള്ളലോടുകൂടിയ ഏകീകൃത ടെൻഷൻ സ്ട്രിപ്പിന് വേണ്ടിയാണെന്ന് ആളുകൾ അന്ധമായി പറഞ്ഞു അത് അങ്ങനെയല്ല അതിർത്തി അവസ്ഥ നമ്മൾ പരിശോധിച്ചു ഇത് യഥാർത്ഥത്തിൽ ഒരു ബൈ ആക്സെൽ ടെൻഷനുള്ളതാണെന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തി ഇപ്പോൾ നമുക്ക് സ്ട്രെസ് ഫീൽഡ് ലഭിക്കണമെങ്കിൽ ഞാൻ ഈ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഈ പരിഷ്ക്കരണം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു അതിനാൽ z എന്നത് z നോട്ട് പ്ലസ് a യ്ക്ക് തുല്യമായി പകരം വയ്ക്കുമ്പോൾ ഇവിടെ ക്രാക്ക് ടിപ്പിൽ നിന്നുള്ള ദൂരം അളക്കുന്നത് z അല്ല നിങ്ങളുടെ വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ മാറും ഇത് ഇതുപോലെയാകും എഞ്ചിനീയർമാർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സ്ട്രെസ് ഫീൽഡ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വിള്ളലിന്റെ ദൈർഘ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ z നോട്ട് വളരെ വളരെ ചെറുതായി എടുക്കുന്നു അതിനാൽ ഞാൻ ശ്രമിക്കുന്ന പരിഹാരം എന്തായാലും എന്റെ ഡൊമെയ്ൻ വളരെ ചെറുതാണെങ്കിൽ ക്രാക്ക് ടിപ്പിന് സമീപമാണ് അതിനാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഈ പദപ്രയോഗം ലളിതമാക്കാനും നിങ്ങൾക്ക് ഈ Z z നോട്ട് പ്ലസ് a എന്ന് എഴുതാം ലളിതമായി a എന്നും എഴുതാനും കഴിയും കാരണം z നോട്ട് വളരെ ചെറുതാണ് z നോട്ട് ചെറുതാണെന്ന് പറയുമ്പോൾ z നോട്ട് സ്ക്വയർ വളരെ ചെറുതായിരിക്കും അതിനാൽ ഇത് ഇല്ലാതാക്കും അതിനാൽ എനിക്ക് സിഗ്മ a ബൈ റൂട്ട് 2 z നോട്ട് a മാത്രമേ കാണൂ അത് ഈ രീതിയിൽ പുനക്രമീകരിക്കാൻ കഴിയും ഈ ഘട്ടങ്ങൾ നോക്കുന്നതിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്ന് കാണുക അതിർത്തി അവസ്ഥ നമ്മൾ പരിശോധിച്ചു അതിർത്തി അവസ്ഥ നിങ്ങൾ ശരിക്കും ഒരു ബൈ ആസ്കിയൽ ടെൻഷൻ പ്രശ്നത്തിനായി തിരയുന്നതായി കാണിച്ചു അതാണ് ഒന്നാമത് എന്നാൽ നമ്മൾ സ്ട്രെസ് ഫീൽഡ് കണ്ടെത്താൻ താൽപ്പര്യപ്പെടുമ്പോൾ നമ്മൾ പരിഹാരം കണ്ടെത്താൻ താൽപ്പര്യപ്പെടുന്ന ഡൊമെയ്ൻ ക്രാക്ക് ദൈർഘ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണെന്ന് നമ്മൾ കണക്കാക്കുന്നു നമ്മൾ ലളിതമാക്കുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ നേടാൻ പോകുന്ന പരിഹാരം ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തായി മാത്രമേ സാധുതയുള്ളൂ അതിനാൽ ഇത് ഇലാസ്റ്റ്സിറ്റി സിദ്ധാന്ത ചിന്തയിൽ നിങ്ങൾ കണ്ടെത്തുന്ന പരിഹാരം നിന്ന് അടുത്ത ആയിരിക്കില്ല ഇത് സമീപമുള്ള ഒരു ഫീൽഡ് പരിഹാരം മാത്രമാണ്

ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ലളിതവൽക്കരണങ്ങൾ നോക്കേണ്ടതുണ്ട് ഇവിടെ ഒരു പുതിയ പാരാമീറ്റർ K അവതരിപ്പിക്കുന്നു നമ്മൾ മോഡ് 1 സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാൽ K I എന്നത് സിഗ്മ റൂട്ട് പൈ a ക്ക് തുല്യമാണ് ഇർവിൻ തന്റെ സഹകാരി കീസിന്റെ ബഹുമാനാർത്ഥം ഇത് അവതരിപ്പിച്ചുവെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചു നമുക്ക് സിഗ്മ റൂട്ട് പൈ a ഉണ്ട് ഫ്രാക്ചർ മെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൽ പൈ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് ആളുകൾ ചർച്ച ചെയ്തു സിഗ്മ റൂട്ട് a പോലും മതിയാകുമെന്ന് ആളുകൾ കരുതി ഒരു ചിന്താധാരയുണ്ട് പൈ കൂടാതെ ഇത് ചർച്ച ചെയ്യപ്പെടാമെന്നും ഫ്രാക്ചർ മെക്കാനിക്സ് മുഴുവനും വികസിപ്പിച്ചെടുക്കാമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ പൈ വന്നത് ഇർവിൻ ഇത് നിർവചിച്ചതുകൊണ്ടാണ് അതിനാൽ ഈ പരിഷ്ക്കരണത്തിലൂടെ സ്ട്രെസ് ഫംഗ്ഷനും വീണ്ടും ഉൾപ്പെടുത്താനാകും അതിനാൽ നിങ്ങൾ ഈ നിർവചനം മാറ്റിസ്ഥാപിക്കുമ്പോൾ ഇത് K I ബൈ റൂട്ട് 2 pi z നോട്ട് പവർ മൈനസ് ഹാഫ് ആയി കുറയും കൂടാതെ z നോട്ട് r e പവർ i തീറ്റ 𝚹 എന്ന് എഴുതാൻ കഴിയും കോസ് തീറ്റ പ്ലസ് ഐ സിൻ തീറ്റ യുടെ രൂപത്തിൽ ഇത് കൂടുതൽ ലളിതമാക്കാം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവസാനമായി r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ട്രെസ് ഫീൽഡ് ലഭിക്കും അതാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ എന്നതിന്റെ അടിസ്ഥാന നിർവചനവും നമ്മൾ പരിശോധിക്കും കാരണം നമുക്ക് വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ട് ഞാൻ ഈ രീതിയിൽ സ്ട്രെസ് ഫംഗ്ഷൻ എഴുതുന്ന നിമിഷം നിങ്ങൾ തിരിച്ചറിയണം വിള്ളലിന്റെ ദൈർഘ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ z നോട്ട് വളരെ ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് മാത്രമേ നൽകൂ Z അറിഞ്ഞുകഴിഞ്ഞാൽ Z പ്രൈം എഴുതാൻ ഒട്ടും പ്രയാസമില്ല ഒരു സെൻട്രൽ ക്രാക്കിന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലും വെസ്റ്റർഗാർഡ് നിരവധി സ്ട്രെസ് ഫംഗ്ഷനുകൾ നൽകിയിട്ടുണ്ട് അത് ഒന്നിലധികം വിള്ളലുകൾക്കും വെഡ്ജ് ലോഡ് ഉപയോഗിച്ച് വിള്ളലുകൾക്കും ഉപയോഗിക്കാം ഇവയെല്ലാം അടുത്ത അധ്യായത്തിൽ നാം കാണും SIF ൻറെ നിർവചനം ഇതിൽനിന്നെല്ലാം നിങ്ങൾ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കണം ഒരു സ്ട്രെസ് ഫംഗ്ഷൻ നൽകികഴിഞ്ഞാൽ അതിൽ നിന്ന് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ അടിസ്ഥാന നിർവചനം എന്താണ് ഈ രണ്ട് ഉദ്ദേശ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഗണിതശാസ്ത്രപരമായി എങ്ങനെ നിർവചിക്കപ്പെടുന്നുവെന്ന് നമ്മൾ പരിശോധിക്കും അതിനാൽ എനിക്ക് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ Z ഉണ്ടെങ്കിൽ അത് ക്രാക്ക് ടിപ്പിനെ ഉത്ഭവമായി പരാമർശിക്കണം ഉറവിടം മാറ്റിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ഞാൻ z നോട്ട് എന്ന ചിഹ്നം ഉപയോഗിക്കുന്നു സ്ട്രെസ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ അതിനെ റൂട്ട് 2 pi z നോട്ട് കൊണ്ട് ഗുണിച്ച് z നോട്ട് പൂജ്യത്തിലേക്ക് ആകുന്നുവെന്ന് ലിമിറ്റ് ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് പദപ്രയോഗവും ആ പ്രത്യേക പ്രശ്നത്തിന്റെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ആയിരിക്കും അതിനാൽ ഇത് വീണ്ടും വെസ്റ്റർഗാർഡിന്റെ സമീപനത്തിൽ നിന്നുള്ള ഒരു നേട്ടമാണ് പലതരം പ്രശ്നങ്ങൾക്ക് വിശകലനപരമായ പദപ്രയോഗം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു

അതിനാൽ പ്രായോഗികമായി ചില സാഹചര്യങ്ങളിൽ ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ആളുകൾക്ക് തോന്നി K ക്ക് MPa റൂട്ട് മീറ്ററിന്റെ ഒരു യൂണിറ്റ് ഉണ്ടെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടറിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അത് ഒരു സംഖ്യ മാത്രമാണ് സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിറ്റ് കാണുമ്പോൾ തമാശ ഉണ്ട് നിങ്ങൾ FPS സിസ്റ്റത്തിൽ നിന്ന് SI സിസ്റ്റത്തിലേക്ക് യൂണിറ്റ് പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ ഫലങ്ങൾ ലഭിക്കും SIF ഉപയോഗിച്ചുകൊണ്ട് ഇർവിൻ നൽകിയ സംഭാവനയുടെ പ്രയോജനം കൊണ്ട് ഫ്രാക്ചർ മെക്കാനിക്സ് ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തി അതിനാൽ ആളുകൾക്ക് തോന്നിയത് ഒരു ആശയം എന്ന നിലയിൽ ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് വളരെ നല്ലതാണ് പക്ഷേ വിലയിരുത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഇത് വളരെ വിചിത്രമായിരുന്നു മറുവശത്ത് ക്രാക്ക് ടിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇർവിൻ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഉപയോഗിച്ചു ഇത് വിള്ളൽ പ്രശ്നം നോക്കുന്നതിന് വ്യത്യസ്തമായ ഒരു മാർഗ്ഗം നൽകി അത് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകുകയും ആളുകൾക്ക് ഫ്രാക്ചർ മെക്കാനിക്സിൽ കൂടുതൽ മുന്നേറ്റം നൽകുകയും ചെയ്തു ഉടൻ തന്നെ നമ്മൾ സ്ട്രെസ് ഫീൽഡ് നോക്കാൻ പോകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ നിർവചനങ്ങൾ നൽകാം മോഡ് I സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനായി തീറ്റയിലെ സിഗ്മ yy 0 ന് തുല്യമാണ് 2 pi r ന്റെ റൂട്ട് കൊണ്ട് ഗുണിച്ചാൽ rന്റെ ലിമിറ്റ് 0 ആയി മാറുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത് മോഡ് I സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ആണ് നിങ്ങൾക്ക് മോഡ് II മോഡ് III എന്നിവയ്ക്കായി എഴുതുമ്പോൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർൻറെ വ്യത്യാസം കാണാം മോഡ് I ന്റെ കാര്യത്തിൽ നിങ്ങൾ 0 ന് തുല്യമായ തീറ്റയിൽ സിഗ്മ yy നോക്കാം മോഡ് II ന്റെ കാര്യത്തിൽ നിങ്ങൾ 0 ന് തുല്യമായ തീറ്റയിലെ tau xy നോക്കുന്നു ഇത് ഒരു ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് ആണ് മോഡ് III ന്റെ കാര്യത്തിൽ നിങ്ങൾ 0 ന് തുല്യമായ തീറ്റയിലെ tau yz നോക്കാൻ പോകുന്നു ഇത് ഔട്ട് ഓഫ് പ്ലെയിൻ ഷിയർ സ്ട്രെസ് ആണ് നിങ്ങൾ സംഖ്യാ രീതികൾ വികസിപ്പിക്കുമ്പോൾ ഈ നിർവചനങ്ങൾ ഉപയോഗപ്രദമാകും കൂടാതെ K യുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുകയും വേണം സംഖ്യാ പരിഹാരത്തിൽ നിന്ന് K എങ്ങനെ നേടാം എന്ന് കണ്ടെത്താൻ അവ ഉപയോഗിക്കാം വെരി നിയർ ടിപ്പ് സ്ട്രിപ്പ് ടിപ്പ് ഇപ്പോൾ മുതൽ നിങ്ങൾക്കറിയാം തലക്കെട്ട് വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യം നൽകും നമ്മൾ ഉറവിടം മാറ്റിയതിനാൽ ഉത്ഭവം മാറ്റുന്ന പ്രക്രിയയിൽ നമ്മൾ ഒരു ലളിതവൽക്കരണം കൊണ്ടുവന്നു വിള്ളലിന്റെ നീളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ z നോട്ട് വളരെ ചെറുതാണ് ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തത്തിൽ ഫൈ അറിഞ്ഞുകഴിഞ്ഞാൽ സ്ട്രെസ് ഘടകങ്ങൾ നിർണ്ണയിക്കാനാകും ഇത് നിങ്ങളുടെ ധാരണയെ വീണ്ടും ഉറപ്പിക്കാൻ മാത്രമാണ് ഇപ്പോൾ സ്ട്രെസ് ഫീൽഡും വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സിഗ്മ x സിഗ്മ y tau xy ഉണ്ട് ഇത് Z ന്റെ റിയൽ ഭാഗം മൈനസ് y ഗുണം Z പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗത്തിന് തുല്യമാണ് തുടർന്ന് Z ന്റെ റിയൽ ഭാഗം പ്ലസ് y ഗുണം Z പ്രൈമിന്റെ സാങ്കല്പിക ഭാഗം മൈനസ് y ഗുണം Z പ്രൈമിന്റെ റിയൽ ഭാഗം ആണ് ഈ പ്രശ്നത്തിന് അനുയോജ്യമായ എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ എന്താണ് ഇത് ഫൈ എന്നത് Z ഡബിൾ ബാറിന്റെ റിയൽ ഭാഗം പ്ലസ് y ഗുണം Z ബാറിന്റെ സാങ്കൽപ്പിക ഭാഗത്തിനും തുല്യമാണ് നിങ്ങൾ ഈ പദപ്രയോഗം നോക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ഫീൽഡിനും സാധുതയുള്ളതാണ് വെസ്റ്റർഗാർഡ് നൽകിയതുപോലെയാണ് നമ്മൾ Z തിരഞ്ഞെടുക്കുന്നത് അതായത് സിഗ്മ z ബൈ റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർഅല്ലെങ്കിൽ Z K I ബൈ റൂട്ട് 2 പൈ z നോട്ടിന് തുല്യമാകുമ്പോൾ ഇത് നിയർ ഫീൽഡ് പരിഹാരമായി മാറുന്നു യഥാർത്ഥത്തിൽ വെസ്റ്റർഗാർഡ് അദ്ദേഹം നിർദ്ദേശിച്ചപ്പോൾ ഒരു ക്ലാസ് പ്രശ്നങ്ങൾക്കായി അദ്ദേഹം കാണിച്ചു സ്ട്രെസ് ഫീൽഡ് ഇതുപോലെയാണ് ഇത് വളരെ സാധാരണമാണ് നിങ്ങൾ Z എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഇത് ഒരു ക്ലോസഡ് ഫോം പരിഹാരമായി അല്ലെങ്കിൽ നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് പരിഹാരമായി മാറുന്നു നിങ്ങൾ ഇതുപോലെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇത് സാധുതയുള്ളതാണ് z നോട്ട് ക്രാക്ക് ദൈർഘ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ ചെറുതാണ് എന്ന സന്ദർഭത്തിൽ മാത്രം അതാണ് ഇവിടെ ഊന്നിപ്പറയുന്നത് അതിനാൽ നിങ്ങൾ ശരിക്കും സംസാരിക്കുന്നത് വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളെക്കുറിച്ചാണ് R തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ എക്സ്പ്രഷൻ ലഭിക്കും ഇത് നമ്മൾ ഇതിനകം കണ്ടതാണ് അതിനാൽ എനിക്ക് Z എന്നത് K I ബൈ റൂട്ട് 2 പൈ r ഗുണം കോസ് തീറ്റ ബൈ 2 മൈനസ് i സൈൻ തീറ്റ ബൈ 2 എന്ന് എഴുതാൻ കഴിയും കുറച്ച് ക്ലാസുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പദപ്രയോഗം പരിചിതമാകും നിങ്ങൾക്ക് ആദ്യ പദം ഒടുവിൽ ഓർമ്മിക്കാം എനിക്ക് സ്ട്രെസ് ഫീൽഡ് ലഭിക്കാൻ Z Z പ്രൈം എന്താണെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട് R തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് അവ ലഭിക്കുകയാണെങ്കിൽ എനിക്ക് അത് എക്സ്പ്രഷനുകളിൽ പകരം വയ്ക്കാനും r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്ട്രെസ് ഫീൽഡ് നേടാനും കഴിയും Z1 പ്രൈം എന്നത് മൈനസ് K1 ബൈ 2 Z നോട്ട് റൂട്ട് 1 2 പൈ z നോട്ട് ആണ് ഇത് z നോട്ട് 3 പവർ ബൈ 2 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എനിക്ക് ഇത് KI ബൈ 2 ഗുണം റൂട്ട് 2 pi r പവർ 3 ബൈ 2 കോസ് 3 തീറ്റ ബൈ 2 മൈനസ് i സൈൻ 3 തീറ്റ ബൈ 2 എന്ന് എഴുതാം അത്തരമൊരു പദ പ്രയോഗത്തിലൂടെ എനിക്ക് സ്ട്രെസ് ഫീൽഡ് നേടാൻ കഴിയും സ്ട്രെസ് ഫീൽഡ് r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നു അത് ഇപ്രകാരമാണ് K I ബൈ റൂട്ട് 2 പൈ ആർ കോസ് തീറ്റ ബൈ 2 ഗുണം 1 മൈനസ് സൈൻ തീറ്റ ബൈ 2 സൈൻ 3 തീറ്റ ബൈ 2 നിങ്ങൾ നിങ്ങളുടെ റൂമുകളിൽ പോയി Z Z പ്രൈമുകളുടെ മൂല്യങ്ങൾ ഉചിതമായി പുനഃ സ്ഥാപിച്ചാൽ ഞാൻ ഇവിടെ കാണിച്ചതുപോലുള്ള അന്തിമ പദപ്രയോഗങ്ങൾ നേടാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക രണ്ടാമത്തെ പദം 1 പ്ലസ് സൈൻ തീറ്റ ബൈ 2 സൈൻ 3 തീറ്റ ബൈ 2 ആണ് tau xy എന്നത് സൈൻ തീറ്റ ബൈ 2 കോസ് 3 തീറ്റ ബൈ 2 ആണ് ഇത് ക്രാക്ക് ടിപ്പിന് സമീപം എന്താണ് സംഭവിക്കുന്നതെന്ന് ചില ധാരണ നൽകുന്നു ഘടകങ്ങളായ സിഗ്മ x സിഗ്മ y tau xy നോക്കിയാൽ ഇതിന്റെയെല്ലാം ശക്തി നിർണ്ണയിക്കുന്നത് K യുടെ മൂല്യമാണ്

അതിനാൽ ഫീൽഡിന്റെ ശക്തി ഇത് നിർണ്ണയിക്കുന്നു അതിനാലാണ് നിങ്ങൾ ഇതിനെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നത് ഫീൽഡ് വ്യതിയാനം r 𝚹 നിർവചിക്കുന്നു ഒരൊറ്റ പാരാമീറ്ററാണ് മാഗ്നിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നത് മറ്റൊന്ന് r പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ മൂല്യങ്ങൾ അനന്തതയിലെത്തും നിങ്ങൾക്ക് 1 ബൈ റൂട്ട് r ഉണ്ട് ഫ്രാക്ചർ മെക്കാനിക്സ്ൽ റൂട്ട് r സിംഗുലാരിറ്റി എന്നാണ് സിംഗുലാരിറ്റി അറിയപ്പെടുന്നത് പ്ലാസ്റ്റിസിറ്റി സാഹചര്യത്തിൽ നിങ്ങൾക്ക് r സിംഗുലാരിറ്റി ഉണ്ടാകും

വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സിംഗുലാരിറ്റി ശക്തി വ്യത്യസ്തമായിരിക്കും ആളുകൾ അത് ശ്രദ്ധിച്ചു ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ പലപ്പോഴും കാണുന്ന വളരെ പ്രസിദ്ധമായ ഒരു പദമാണ് റൂട്ട് r സിംഗുലാരിറ്റി അനന്തതയെ സമീപിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി പരിഹാരം സ്ട്രെസ് ഫീൽഡ് 1 ബൈ റൂട്ട് r ആകുന്നു ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത് സ്ട്രെസ് ഫീൽഡ് ക്രാക്ക് ടിപ്പിനോട് വളരെ അടുത്ത് എത്തിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു കാരണം നമ്മൾ ഒരു a നെ അപേക്ഷിച്ച് z നോട്ട് വളരെ ചെറുതാണ് എന്ന എടുത്തിരുന്നു ഇത് പരീക്ഷണാത്മകർക്ക് ഉപയോഗപ്രദമാണോ അത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം കാരണം അതിന്റെ സാധുതയുള്ള പ്രദേശം വളരെ ചെറുതാണ് വാസ്തവത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള പരമ്പരാഗത പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഈ പരിഹാരം മാത്രമേ നൽകുന്നുള്ളൂ ഉയർന്ന ഓർഡർ ഘടകങ്ങൾ പോലും അവർ ചർച്ച ചെയ്യുന്നില്ല കുറച്ച് ക്ലാസ്സുകൾക്ക് ശേഷം നമ്മൾ ഉയർന്ന ഓർഡർ പദങ്ങൾ വികസിപ്പിക്കും കാരണം ഇപ്പോൾ നമ്മൾ സ്ട്രെസ് ഫീൽഡിലേക്കും പിന്നീട് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിലേക്കും നോക്കും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ നിന്ന് ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങും ക്രാക്ക് ഫേസ് ഡിസ്പ്ലേസ്മെന്റിനെ അടിസ്ഥാനമാക്കി ഊർജ്ജം എങ്ങനെ കണക്കാക്കാമെന്ന് നമ്മൾ നോക്കും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറും എനർജി റിലീസ് റേറ്റും തമ്മിലുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ കണ്ടെത്തും തുടർന്ന് മോഡ് II ലേക്ക് വരിക മോഡ് II നോക്കുക ഫ്രാക്ചർ മെക്കാനിക്സിനുള്ള ഉയർന്ന ഓർഡർ പരിഹാരം ചർച്ച ചെയ്യും അതിനാൽ നിങ്ങൾ ആ ഘട്ടത്തിലേക്ക് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും പരീക്ഷണാത്മക മെക്കാനിക്സിനെ അടിസ്ഥാനമാക്കിയുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വിലയിരുത്തണമെങ്കിൽ അത് ആവശ്യമാണ് അതിനാൽ നമ്മൾ അത് ചെയ്യും ഞാൻ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം വെസ്റ്റർഗാർഡിന്റെ പരിഹാരം യഥാർത്ഥത്തിൽ ഒരു ബൈ ആസ്കിയൽ ലോഡിംഗിനായി ഉദ്ദേശിച്ചുള്ളതാണ് സ്ട്രെസ് ഫീൽഡ് ക്രാക്ക് ടിപ്പിനടുത്ത് ലഭിച്ചതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഫൈനൈറ്റ് ബോഡി സ്ട്രെസ് ഫീൽഡുകൾ പരിഹാരങ്ങൾക്ക് ഏകീകൃത സ്ട്രെസ് ഫീൽഡ് പരിഹാരം മാത്രം ഉപയോഗിക്കുന്നത് പരീക്ഷണാത്മകമായി നിരീക്ഷിച്ച സ്ട്രെസ് ഫീൽഡുകൾക്കു പകരം പര്യാപ്തമല്ല ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തത്തിന് അനന്തമായ ജ്യോമട്രിക്ക് മാത്രമേ പരിഹാരം നൽകാൻ കഴിയൂ എല്ലാ പ്രായോഗിക ജ്യോമട്രികളും പരിമിതമാണ് ആത്യന്തികമായി പരിമിതമായ ജ്യോമട്രിക്കുള്ള പരിഹാരം എനിക്ക് ലഭിക്കേണ്ടതുണ്ട് കാരണം പരിഹാരം ക്രാക്ക് ടിപ്പിന് വളരെ അടുത്താണ് പരിമിതമായ ജ്യോമട്രിക്കും ആളുകൾ ഇത് വിശദീകരിച്ചു എന്നാൽ നിങ്ങൾ ഉചിതമായ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് അതിനാൽ പിന്നീട് അതിർത്തി കൊളോകേഷൻ വിദ്യകൾ വികസിപ്പിച്ചെടുത്തു ഇത് ഫൈനൈറ്റ് ബോഡി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ഇവിടെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം ഏകീകൃത പരിഹാരം പര്യാപ്തമല്ല അതിനേക്കാൾ കൂടുതൽ നാം അന്വേഷിക്കണം ഇതിനായി വെസ്റ്റർഗാർഡിന്റെ പരിഹാരത്തിൽ മാറ്റങ്ങൾ പല അന്വേഷകരും നിർദ്ദേശിച്ചു നമ്മൾ എങ്ങനെയുള്ള ഏകദേശ കണക്കുകളാണ് ആളുകൾ നടത്തിയതെന്ന് നിങ്ങൾക്കറിയാം അതിർത്തി വ്യവസ്ഥ തൃപ്തിപ്പെടുത്തുന്നതിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി നോക്കും വെസ്റ്റർഗാർഡ് പരിഹാരത്തിൽ നിന്ന് നമുക്ക് എന്ത് തരത്തിലുള്ള ഫലം ലഭിക്കും എന്ന് നമ്മൾ ആദ്യം കാണും നമ്മൾ സ്ട്രെസ് ഫീൽഡ് കണ്ടു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പുരോഗതിയിൽ ഫോട്ടോഇലാസ്റ്റിറ്റി ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കുമെന്നും ഈ ആവശ്യത്തിനായി നമ്മൾ ഫോട്ടോലാസ്റ്റിറ്റി എങ്ങനെ ഉപയോഗിക്കുമെന്നുംപറയുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളുടെ അനുയോജ്യത നമ്മൾ കണ്ടെത്തണം നമ്മൾ അത് എങ്ങനെ സ്ഥിരീകരിക്കും പ്രാരംഭ പ്രഭാഷണത്തിൽ ഫോട്ടോഇലാസ്റ്റിറ്റി ഫ്രിഞ്ച് കോൺണ്ടറുകൾ യഥാർത്ഥത്തിൽ ഐസോക്രോമാറ്റിക്സാണ് എന്ന് നമ്മൾ കണ്ടു അത് സ്ഥിരമായ പ്രിൻസിപ്പൽ സ്ട്രെസ് വ്യത്യാസത്തിന്റെ രൂപരേഖകളെ പ്രതിനിധീകരിക്കുന്നു ഇത് പരമാവധി ഷിയർ സ്ട്രെസ് ആയി കണക്കാക്കാം യഥാർത്ഥത്തിൽ ഇത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 നെ 2 കൊണ്ട് ഹരിച്ചാൽ ഐസോക്രോമാറ്റിക്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കും പരമാവധി ഷിയർ സ്ട്രെസ് സിഗ്മ x മൈനസ് സിഗ്മ y യുടെ മുഴുവൻ സ്ക്വയർ ബൈ 4 പ്ലസ് tau xy മുഴുവൻ സ്ക്വയർ ആയി തിരിച്ചിരിക്കുന്നു ക്രാക്ക് പ്രശ്നത്തിന്റെ ഈ ഘട്ടത്തിൽ ക്രാക്ക് ടിപ്പിന് സമീപത്തായി സിഗ്മ x സിഗ്മ y tau xy യ്ക്കുള്ള പദപ്രയോഗങ്ങളുണ്ട് അതിനാൽ വിശകലനപരമായി കണക്കാക്കാൻ നമ്മൾക്കാകും പരമാവധി ഷിയർ സ്ട്രെസ് എന്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് ഉം പരമാവധി ഷിയർ സ്ട്രെസ് ഉം തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ് ഇതെല്ലാം സൂക്ഷ്മമായ സങ്കൽപ്പങ്ങളാണ് ഇൻ പ്ലെയിൻ ഷിയറി സ്ട്രെസ് ക്രാക്ക് ആക്സിൽ 0 ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ അത് സംതൃപ്തമായി കണ്ടു എന്നാൽ പരമാവധി ഷിയർ സ്ട്രെസ് ന് അത്തരം നിയന്ത്രണങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഫോട്ടോലാസ്റ്റിക് ഫ്രഞ്ച്സുകളും വെസ്റ്റർഗാർഡ് സമവാക്യവുമായി താരതമ്യം നമുക്ക് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പരീക്ഷണാത്മകമായി നിരീക്ഷിച്ച അതിരുകളെ മികച്ച രീതിയിൽ മാതൃകയാക്കാൻ അനുയോജ്യമായ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഗവേഷകരെ അറിയിച്ച ഫ്രിഞ്ച് പാറ്റേണുകളുടെ ജ്യോമട്രി സവിശേഷതകളാണ് ഇത് ഞാൻ ഈ പ്രസ്താവന നടത്തുമ്പോൾ വെസ്റ്റർഗാർഡിന്റെ പരിഹാരത്തിനായി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫ്രിഞ്ച് പാറ്റേണുകൾ ലഭിക്കുന്നുവെന്ന് നിങ്ങൾ കാണണം ഹ്രസ്വമായ വിള്ളലുകളും നീണ്ട വിള്ളലുകളും ഉള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള താരതമ്യമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്ക് ഒരു വിധി പറയാൻ കഴിയും ഇപ്പോൾ എനിക്ക് ഈ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ലഭ്യമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പരമാവധി ഷിയർ സ്ട്രെസ് കണക്കാക്കി അതിനെ ഒരു പ്ലോട്ടാക്കി മാറ്റാം ഇതൊരു സംഖ്യാ പ്ലോട്ടാണ് ഒരുപക്ഷേ എനിക്ക് ഇത് നിങ്ങൾക്കായി വലുതാക്കാം ഞാൻ ഇവിടെ എന്താണ് കണ്ടെത്തുന്നത് ഫ്രിഞ്ച്സ് x അക്ഷത്തിൽ സിമെട്രിക് ആണ് ഫ്രിഞ്ച്സ് y അക്ഷത്തിലും സിമെട്രിക് ആണ് കൂടാതെ ക്രാക്ക് അക്ഷത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായ ഫ്രിഞ്ച് ഓർഡർ 0 ഉണ്ട്

നമുക്ക് ഇത് ആവശ്യമില്ല വിള്ളൽ അക്ഷത്തിൽ 0 എന്ന പരമാവധി ഷിയർ സ്ട്രെസ് നമ്മൾ ചുമത്തിയിട്ടില്ല നമ്മൾ ആ വീക്ഷണകോണിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നാൽ നമ്മൾ tau xy 0 ന് തുല്യമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി tau max ക്രാക്ക് അക്ഷത്തിൽ 0 ആണ് ഇതാണ് ആശയക്കുഴപ്പത്തിന്റെ ഉറവിടം ആശയക്കുഴപ്പത്തിന്റെ ഉറവിടം മാത്രമല്ല ആളുകൾ നടപടിക്രമങ്ങൾ നോക്കിക്കാണുകയും അവർ വളരെ രസകരമായ ഒരു നിരീക്ഷണവുമായി പുറത്തുവരുകയും ചെയ്തു ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തത്തിൽ നിങ്ങൾ ശരിക്കും സ്ട്രെസ് ഫംഗ്ഷനെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ എടുക്കുകയും തുടർന്ന് സിഗ്മ x സിഗ്മ y tau x y നോക്കുകയും അതിർത്തി അവസ്ഥയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യാം ഈ സാഹചര്യത്തിൽ നമ്മൾ എല്ലാം ചെയ്തു നമ്മൾ ഒരു സ്ട്രെസ് ഫംഗ്ഷനായി എടുത്തിട്ടുണ്ട് ഇത് ബൈ ഹാർമോണിക് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു നമ്മൾ അതിർത്തി അവസ്ഥ പരിശോധിച്ചു ഇത് എല്ലാ അതിർത്തി വ്യവസ്ഥകളെയും തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ നമ്മൾ ഗണിതശാസ്ത്ര വിശകലനത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഒടുവിൽ നമുക്ക് ഒരു പരിഹാരം ലഭിക്കുന്നു ഫോട്ടോലാസ്റ്റിക് അതിരുകൾ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ അവ വീണ്ടും കാണും അതിനെ അപേക്ഷിച്ച് ഇത് എവിടെയുമില്ല മറ്റൊരു പ്രധാന നിരീക്ഷണം വിള്ളൽ അക്ഷത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ് 0 ആണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കിയതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ കുറിപ്പുകളിൽ ഈ വിവരങ്ങൾ ലഭ്യമായിരിക്കണം ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു X y അക്ഷങ്ങളെ അടിസ്ഥാനമാക്കി സിമട്രി ആണ് ഐസോക്രോമാറ്റിക്സ് വിള്ളൽ ആക്സിസ് ഇൻറെ ഫ്രീഞ്ച് ക്രമം 0 ആണ് പരീക്ഷണങ്ങൾക്ക് വിധേയരാകാത്ത വിശകലന ആളുകൾക്ക് ക്രാക്ക് അക്ഷത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ് 0 ആണെന്ന് പറയുന്നതാണ് നല്ലത് ഇത് ആകസ്മികമാണ് പരമാവധി ഷിയർ സ്ട്രെസ് 0 ആണെന്ന് പരിഹാരം പറയുന്നു എന്നാൽ നിങ്ങൾ പരീക്ഷണത്തിലേക്ക് പോകുന്നു നിങ്ങൾ മറ്റൊരു ചിത്രം കാണുന്നു ഈ പരീക്ഷണാത്മക ഫ്രിഞ്ച് പാറ്റേണുകൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകാം നമ്മൾ ശ്രദ്ധിച്ച സവിശേഷതകൾ എന്തൊക്കെയാണ് ആദ്യത്തെ നിരീക്ഷണം ഫ്രിഞ്ച് മുന്നോട്ട് ചരിഞ്ഞതാണ് ഇത് ഒരു നിരീക്ഷണമാണ് രണ്ടാമത്തെ നിരീക്ഷണം സൂക്ഷ്മമാണ് നിങ്ങൾ അത് ശരിയായി കാണണം ഇതിന്റെ പരമാവധി പോയിന്റ് എനിക്ക് കണ്ടെത്താൻ കഴിയും ഈ കോണിൽ ടിൽറ്റിന്റെ കോൺ വ്യത്യാസപ്പെടുകയും 90 ഡിഗ്രി അടുക്കുകയും ചെയ്യുന്നു അതിനർത്ഥം ഫ്രിഞ്ച്കൾ ഇതുപോലെ ചരിഞ്ഞുപോകുന്നു വെസ്റ്റർഗാർഡിന്റെ പരിഹാരത്തിൽ നിങ്ങൾ കണ്ടെത്തി y ആക്സിസിനെക്കുറിച്ച് ഫ്രിഞ്ച് കൃത്യമായി സിമട്രി ആണ് അതേസമയം ഇവിടെ അത് മുന്നോട്ട് ചരിഞ്ഞിരിക്കുന്നു സ്ക്രീനിൽ പിന്നോക്കം ചെരിഞ്ഞതായി ഇത് ദൃശ്യമാകുന്നു അതിനാൽ ഞാൻ ഇതുപോലെ കൈ വയ്ക്കണം അതിനാൽ ഇത് മുന്നോട്ട് ചരിഞ്ഞതാണ് മറ്റൊരു സൂക്ഷ്മ നിരീക്ഷണം ക്രാക്ക് ആക്സിസ് ന്റെ നിറം ചാരനിറത്തിലുള്ള ചില ഷേഡുകളിൽ നിന്ന് ക്രമേണ കൂടുതൽ കറുത്തതായി മാറുന്നതായി നിങ്ങൾ കാണുന്നു ഇത് ക്രാക്ക് അക്ഷങ്ങളിൽ പരമാവധി ഷിയർ സ്ട്രെസ്ന്റെ വ്യത്യാസമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഇത് 0 അല്ല ഈ ഫ്രിഞ്ച് പാറ്റേണിൽ വളരെ വ്യക്തമല്ല മറ്റൊരു ഫ്രിഞ്ച് പാറ്റേൺ നമ്മൾ കാണും നീളമുള്ള വിള്ളൽ നമ്മൾ നോക്കും ഇതിൽ നിങ്ങൾ വളരെ വ്യക്തമായി കാണുന്നു എനിക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട് എനിക്ക് ഇവിടെ മറ്റൊരു ലൂപ്പ് ഉണ്ട് അതിനാൽ വിള്ളൽ അക്ഷത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ്ന്റെ വ്യത്യാനം ഉണ്ട് അതിനാൽ ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സ്ട്രെസ് ഫീൽഡ് ഞാൻ മനസ്സിലാക്കി എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ വിശകലന പരിഹാരവും വിശദീകരിക്കണം ഇത് എന്താണ് അതിനുശേഷം മാത്രമേ വിശകലന പരിഹാരം ശരിയാകൂ നോക്കൂ പരീക്ഷണാത്മക വിദഗ്ധരുടെ കാര്യത്തിൽ നമുക്ക് ക്രാക്ക് ടിപ്പിനോട് വളരെ അടുത്ത് പോയി റീഡിങ് എടുക്കാൻ കഴിയില്ല കാരണം വിള്ളൽ ടിപ്പിന് സമീപത്തായി നിങ്ങൾക്ക് അനലാസ്റ്റിക് രൂപഭേദം സംഭവിക്കും കൂടാതെ ഈ മേഖലയ്ക്ക് ഗണിതശാസ്ത്ര പരിഹാരമൊന്നും ലഭ്യമല്ല എനിക്ക് ഈ മേഖലയിൽ നിന്ന് മാത്രമേ ശേഖരിക്കാൻ കഴിയൂ മറുവശത്ത് ആളുകൾ സംഖ്യാ രീതിശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നു കാരണം വിള്ളൽ ടിപ്പ് എങ്ങനെ പെരുമാറണമെന്ന് അവർ നിർബന്ധിക്കുന്നു അവയ്ക്ക് വിള്ളൽ ടിപ്പിനോട് വളരെ അടുത്ത് പോകാൻ കഴിയും വെസ്റ്റർഗാർഡ് സമവാക്യത്തിന്റെയും T സ്ട്രെസിന്റെയും ഇർവിൻ പരിഷ്ക്കരണം അതിനാൽ ഉയർന്ന ഓർഡർ നിബന്ധനകളുടെ ആവശ്യകതയെക്കുറിച്ച് അവർ ശരിക്കും ആശങ്കപ്പെടുന്നില്ല സിംഗുലാർ പരിഹാരത്തോടെ അവർ ആശ്വസിക്കുക യായിരുന്നു നമുക്ക് ലഭിച്ച പരിഹാരം എന്തായാലും 1 ബൈ റൂട്ട് r പ്രകാരം ഉള്ള പദം സിംഗുലാർ പരിഹാരം എന്ന് വിളിക്കുന്നു അതിനാൽ സിംഗുലാർ പരിഹാരത്തിൽ അവർ സുഖകരമായിരുന്നു ഇത് അങ്ങനെയല്ലെന്ന് പരീക്ഷണാത്മകർക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം 1952 ലെ ചരിത്രപരമായ വികാസം പരിശോധിച്ചാൽ വെൽസും പോസ്റ്റും ചലനാത്മക വിള്ളലിന്റെ ആദ്യ സെറ്റ് അവതരിപ്പിച്ചു ഫോട്ടോഇലാസ്റ്റിറ്റി ഉപയോഗിച്ചുള്ള പ്രചാരണ പരീക്ഷണങ്ങൾ അതിനാൽ ഒരു പ്ലേറ്റിലൂടെ സഞ്ചരിക്കുന്ന വിള്ളലുകൾ അവർ പിടിച്ചെടുത്തു അവർ ഫ്രിഞ്ച് പാറ്റേൺ കണ്ടു ആ ഫ്രിഞ്ച് പാറ്റേണുകൾക്ക് ഫോർവേഡ് ടിൽറ്റ് ഉണ്ടായിരുന്നു ഈ അതിർത്തി പാറ്റേണുകൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് സിഗ്മ നോട്ട് x സ്ട്രെസ് ടേമിലേക്ക് ചേർക്കണമെന്ന ബുദ്ധിപരമായ വാദവുമായി ഇർവിൻ മുന്നോട്ട് വന്നു നിങ്ങൾക്ക് മൈനസ് സിഗ്മ നോട്ട് x 0 മെന്ന് അദ്ദേഹം ലളിതമായി കൂട്ടിച്ചേർത്തു ഇത് ഒരു ബൈ ആസ്കിയൽ പരിഹാരമായി നിങ്ങൾക്ക് ഉള്ളതിനാൽ ഇത് അദ്ദേഹം വാദിച്ചു അതിനാൽ അവർ നടത്തിയ പരീക്ഷണത്തിന് ഒരു ഏകീകൃത ലോഡിംഗിന് പരിഹാരമായി അദ്ദേഹം ഇത് ചേർത്തു വലിയ ഗണിതശാസ്ത്ര വികാസത്തോടല്ല ലളിതമായ വാദങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം ചെയ്തത് പരമ്പരയിൽ രണ്ടാമത്തെ ടേം ചേർത്തു രണ്ടാമത്തെ പദത്തിൽ സിഗ്മ x സ്ട്രെസ് ടേമിന് തിരുത്തൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അത് സ്ഥിരമായ ഒരു മൂല്യമാണ് മറ്റ് രണ്ട് മൂല്യങ്ങൾ 0 ആണ് ഇത് എങ്ങനെ ന്യായീകരിക്കപ്പെട്ടു പരമാവധി ഷിയർ സ്ട്രെസ് ന്റെ രൂപരേഖയല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ ഫ്രീഞ്ച് പാറ്റേൺ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അത് ഇതുപോലെ പ്രത്യക്ഷപ്പെടും അതൊരു ഭാഗ്യമായിരുന്നു ഒരൊറ്റ പദം ചേർത്തുകൊണ്ട് ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞു ഇത് മാത്രമല്ല നിങ്ങൾ ക്രാക്ക് ടിപ്പിനോട് അടുക്കുമ്പോൾ എനിക്ക് ഇത് വലുതാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു പരീക്ഷണങ്ങളിൽ നിരീക്ഷിച്ചതുപോലെ ഫ്രിഞ്ച്കളും നേരെയാകുന്നു അതിനാൽ ഒരു സ്ട്രോക്കിൽ പരീക്ഷണങ്ങളുടെ രണ്ട് പ്രധാന നിരീക്ഷണങ്ങൾ തൃപ്തിപ്പെട്ടു ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞു തുടർന്ന് ചരിവ് കോണും നേരെയാകുന്നു നിങ്ങൾ ക്രാക്ക് ടിപ്പിലേക്ക് പോകുമ്പോൾ മുന്നോട്ട് ചരിഞ്ഞ ശേഷം അത് നേരെ ക്രാക്ക് ടിപ്പിലേക്ക് മാറുകയാണ് അങ്ങനെ നിങ്ങൾ ഇടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷണാത്മക ഫ്രിഞ്ച് പാറ്റേണും നമ്മൾ കാണും അതിനാൽ ഇത് സിഗ്മ നോട്ട് x എന്ന പദം ചേർത്തുകൊണ്ട് വിശകലന സമവാക്യവുമായി നന്നായി പൊരുത്തപ്പെടുന്നു എന്നാൽ ക്രാക്ക് അക്ഷത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ പരമാവധി ഷിയർ സ്ട്രെസ്നുള്ള പദപ്രയോഗം നോക്കുമ്പോൾ tau സ്ക്വയേർഡ് പരമാവധി ഷിയർ സ്ട്രെസ് സിഗ്മ x മൈനസ് സിഗ്മ y മുഴുവൻ സ്ക്വയർ ബൈ 4 പ്ലസ് tau xy മുഴുവൻ സ്ക്വയർ ആയി തുല്യം ആയിരിക്കുന്നു ഇത് പരമാവധി ഷിയർ സ്ട്രെസ് ന്റെ സ്ഥിരമായ മൂല്യം നൽകുന്നു വെസ്റ്റർഗാർഡിന്റെ പരിഹാരത്തിന്റെ കാര്യത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ് 0 ആയിരുന്നു ഇപ്പോൾ ഇത് ഒരു സ്ഥിരമായ മൂല്യമാണ് ദൈർഘ്യമേറിയ വിള്ളലുകൾ ഉൾപ്പെടുന്ന ഒരു പരീക്ഷണത്തിൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു എന്നാൽ തൽക്കാലം നിങ്ങൾ സന്തുഷ്ടരായിരിക്കണം വിള്ളൽ ഇപ്പോൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഒരു പരിഹാരം പിടിച്ചെടുത്തു ഇതിന് രണ്ടാമത്തെ ടേം ഉണ്ട് ഇത് പരീക്ഷണാത്മക മെക്കാനിക്സ് സാഹിത്യത്തിൽ സിഗ്മ നോട്ട് x എന്നറിയപ്പെടുന്നു സംഖ്യാ സാഹിത്യത്തിൽ ഇതിനെ T സ്ട്രെസ് എന്ന് വിളിക്കുന്നു വാസ്തവത്തിൽ ചരിത്രപരമായ വികാസം നോക്കുകയാണെങ്കിൽ അത് 1977 ൽ മാത്രമാണ് പരിഗണിക്കപ്പെടേണ്ട രണ്ടാമത്തെ പദമെങ്കിലും നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് വിശകലനപരമായ വാദവുമായി F T സുബ്രഹ്മണ്യനും ലീബോവിറ്റ്സും രംഗത്തെത്തിയത് ഇപ്പോൾ ആളുകൾ T സ്ട്രെസിന്റെ സ്വാധീനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഫ്രാക്ചർനുള്ള മാനദണ്ഡങ്ങൾ പോലും കണ്ടെത്താൻ അവർ ഇത് ഉപയോഗിക്കുന്നു 1957 ലെ സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വില്യംസ് ഒരു ഐജൻ മൂല്യ പരിഹാരവുമായി വന്നു വാസ്തവത്തിൽ ഈ ശ്രേണിയിൽ ഇതിന് നിരവധി പദങ്ങളുണ്ട് രണ്ടാമത്തെ ടേമിന് ഈ സ്ഥിരമായ സ്ട്രെസ് മൂല്യം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ആളുകൾ അത് ശ്രദ്ധിച്ചില്ല അതാണ് ആശ്ചര്യം വെസ്റ്റർഗാർഡിന്റെ പരിഹാരം വളരെ ജനപ്രിയമായതിനാൽ ഇത് 1939 ൽ അവതരിപ്പിക്കപ്പെട്ടു മാത്രമല്ല പലതരം പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിന് വിശകലനപരമായ പദപ്രയോഗം നേടാനും കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സംഭാവനയിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി വില്യംസിന്റെ സംഭാവന ശ്രദ്ധിച്ചില്ല പ്രധാനമായും വിശകലന ആളുകളും സംഖ്യാ ആളുകളും സിംഗുലാർ പരിഹാരത്തിൽ സന്തുഷ്ടരാണ് കാരണം അവർക്ക് ക്രാക്ക് ടിപ്പിനോട് വളരെ അടുത്ത് പോകാൻ കഴിയും പരീക്ഷണാത്മക വിദഗ്ധർ അതിൽ സന്തുഷ്ടരായിരുന്നില്ല തുടക്കത്തിൽ പരീക്ഷണാത്മകവാദികൾ മാത്രമാണ് ഉയർന്ന ഓർഡർ നിബന്ധനകൾ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞത് ഇർവിന്റെ പരിഷ്ക്കരണം കുറഞ്ഞത് നിങ്ങൾക്ക് സിഗ്മ x സ്ട്രെസ് ടേമിന് ഒരു തിരുത്തൽ ഉണ്ടായിരിക്കണം ടഡ പാരീസ് ഇർവിൻ എന്നിവരുടെ വർക്കുകൾ അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരീക്ഷണത്തിലെന്നപോലെ ഫ്രീഞ്ചസ് മുന്നോട്ട് ചരിഞ്ഞിരിക്കുന്നു ഇർവിന്റെ പരിഷ്ക്കരണം സ്ട്രെസ് ഫീൽഡിനെ ഹ്രസ്വ വിള്ളലുകളിൽ മാതൃകയാക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ അതൊരു ആശ്വാസമാണ് അതിനാൽ വെസ്റ്റർഗാർഡ് പരിഹാരം ഉപയോഗപ്രദമായിരുന്നു നമുക്ക് സ്ട്രെസ് ഫീൽഡ് നേടാൻ കഴിഞ്ഞു നമ്മൾ ആദ്യ ടേം മാത്രം നോക്കി വാസ്തവത്തിൽ നിങ്ങൾ ഇത് പദങ്ങളുടെ ഒരു പരമ്പരയായി കാണണം ആളുകൾ ഏതുതരം ശ്രമങ്ങളാണ് നോക്കിയത് ഏതുതരം ലളിതവൽക്കരണമാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് പരിഹാര വികസനം ഉത്ഭവമാറ്റത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത് a യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ z നോട്ട് വളരെ ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു അത് ശാന്തമാക്കാം ടഡ പാരീസ് ഇർവിൻ എന്നിവരാണ് ഇത് ചെയ്തത് അതിനാൽ ആളുകൾ തിരുത്താനായി അവർക്ക് ലഭ്യമായ എല്ലാ തന്ത്രങ്ങളും പരീക്ഷിച്ചു നിങ്ങൾ z നോട്ട് പ്ലസ് a a എന്നും z നോട്ട് പ്ലസ് 2 a 2 a എന്നിങ്ങനെ പരിഷ്ക്കരിച്ചു അത് ആ രീതിയിൽ എടുക്കുന്നതിനുപകരം ഒരു ബൈനോമിയൽ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ പ്രകടിപ്പിക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഒരു സീരീസ് പരിഹാരം ലഭിക്കുന്നു പൂർണ്ണമായ പരിഹാരമല്ലെങ്കിൽ പരിഹാരത്തിന്റെ രൂപം എഴുതാൻ ശ്രമിക്കുക ഈ ബൈനോമിയൽ പരിഹാരത്തിന്റെ രൂപം എഴുതാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാമോ വിശകലനപരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾക്ക് ഇത് ആശ്വാസം നൽകുന്നു ഈ ശ്രേണിയിൽ എനിക്ക് ധാരാളം പദങ്ങളുണ്ട് അതിനാൽ ഞാൻ നിരവധി നിബന്ധനകൾ എടുക്കുകയാണെങ്കിൽ അത് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സോണുകളുടെ കൂടുതൽ വലുതുമായ പ്രദേശങ്ങളെ മാതൃകയാക്കും അത് അങ്ങനെയല്ല നമ്മൾ അസംസ്കൃത ലളിതവൽക്കരണം നടത്തിയ ഒരേയൊരു സ്ഥലമാണിത് നിങ്ങൾ ഒരു മികച്ച തരം ഗണിതശാസ്ത്രത്തിൽ ചേർക്കുമ്പോൾനിങ്ങൾ കണ്ടെത്തുന്നത് അത് ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിലും ഇവിടെ നിരീക്ഷിക്കുന്നത് നിങ്ങൾ പരമാവധി ഷിയർ സ്ട്രെസ് നോക്കുമ്പോൾ ഇത് ക്രാക്ക് അച്ചുതണ്ടിന്റെ ഫ്രീഞ്ചകളൊന്നും പ്രവചിക്കുന്നില്ല അതായത് ഇത് ഉപയോഗപ്രദമല്ല അതിനാൽ ഗണിതശാസ്ത്രത്തിലെ ഒരു പരിഷ്ക്കരണം മെച്ചപ്പെട്ട പരിഹാരത്തിലെത്താൻ കാരണമായില്ല അതിനാൽ നിങ്ങൾ അടിസ്ഥാനപരമായി നോക്കണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനാൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ മാത്രം നമ്മൾ തിരിച്ചുപോയി സ്ട്രെസ് ഫംഗ്ഷനെ ചോദ്യം ചെയ്യുകയും സ്ട്രെസ് ഫംഗ്ഷൻ പരിഷ്കരിക്കുകയും ചെയ്യുന്നു അത് ഞാൻ കുറച്ച് ക്ലാസുകൾക്ക് മാറ്റിവയ്ക്കും കാരണം നമ്മൾ മറ്റ് പ്രധാന ഫലങ്ങൾ നോക്കും തുടർന്ന് ഇതിലേക്ക് പ്രവേശിക്കുക അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മോഡ് I തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർന്റെ നിർവചനം നമ്മൾ പരിശോധിച്ചു സ്ട്രെസ് ഫീൽഡ് നമ്മൾ നേടിയത് ക്രാക്ക് ടിപ്പിന് വളരെ അടുത്താണ് പരീക്ഷണങ്ങളിലെ ചെറിയ വിള്ളലുകൾ പോലും വിശകലനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് കുറഞ്ഞത് രണ്ടാമത്തെ ടേം എങ്കിലും ആവശ്യമാണ് അത് ഇർവിൻ അവതരിപ്പിച്ചു ഫോട്ടോലാസ്റ്റിക് പരീക്ഷണങ്ങളിൽ നിങ്ങൾ കാണുന്ന സവിശേഷതകൾ വിശദീകരിക്കുന്നതിന് ഈ പ്രശ്നത്തിനായി നമ്മൾ സ്വീകരിച്ച സ്ട്രെസ് ഫംഗ്ഷൻ സാധുതയുള്ളതാണോയെന്ന് നിങ്ങൾ കൂടുതൽ അടിസ്ഥാനപരമായി നോക്കേണ്ടതുണ്ടെന്നും നമ്മൾ ശ്രദ്ധിച്ചു